അതിനാൽ രണ്ട് ആന്റിനകൾക്കിടയിലുള്ള മ്യൂച്വൽ കപ്ലിംഗിലേക്ക് വരുമ്പോൾ അതിനാൽ ഇത് CEM ന്റെ മറ്റൊരു പ്രധാന ഉപയോഗമാണ് അതിനാൽ നമുക്ക് ഇത്തരത്തിലുള്ള എന്താണുള്ളത് നമ്മൾ ഇതുവരെ എന്താണ് ചെയ്തതെന്ന് നോക്കാം അതിനാൽ നമ്മൾക്ക് ഇതുപോലൊരു ആന്റിന ഉണ്ടായിരുന്നു അതിനെ നമുക്ക് ആന്റിന A എന്ന് വിളിക്കാം ഈ ആന്റിന A എന്താണ് ചെയ്യുന്നത് അത് സ്വതന്ത്ര സ്ഥലത്ത് ഒരു ഫീൽഡ് പ്രസരിപ്പിക്കുകയായിരുന്നു അതിനാൽ ഞാൻ കണക്കാക്കിയ ഇൻപുട്ട് ഇംപെഡൻസ് ഊഹിക്കുകയായിരുന്നു നമ്മൾ ഇവിടെ പ്രയോഗിച്ച ബൌണ്ടറി കണ്ടിഷൻസ് എന്തൊക്കെയാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ ബൌണ്ടറി കണ്ടിഷൻസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു കണ്ടക്ടറിൽ ഇത് ഒരു തികഞ്ഞ കണ്ടക്ടറാണെന്ന് നമ്മൾ പറഞ്ഞു ആകെ ഫീൽഡ് ഇനി ഈ ആന്റിനയുടെ പരിസരത്ത് മറ്റെന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും ആ വസ്തുവിലും കുറച്ച് ഇൻഡുസ്ഡ് കറന്റ് ഉണ്ടാകും അതായത് ഫീൽഡ് അതിൽ ഉണ്ടാവും കുറച്ച് ഇൻഡ്യൂസ്ഡ് കറന്റ് എന്നിട്ട് ആ ഇൻഡ്യൂസ്ഡ് കറന്റ് അത് മറ്റൊരു ഫീൽഡിലേക്ക് റേഡിയേറ്റ് ചെയ്യും അത് ഈ ആന്റിനയിൽ വന്നു പതിക്കും അതിനാൽ ഈ ബൌണ്ടറി കണ്ടിഷൻ കർശനമായി ശരിയാകില്ല കാരണം ഇവിടെ കൂടുതൽ ഫീൽഡുകൾ ഉണ്ട് ഈ ബൌണ്ടറി കണ്ടിഷൻ ശരിയല്ലെങ്കിൽ എന്റെ ഉത്തരം മാറുന്നു അതായത് എന്റെ കറന്റ് വിതരണം മാറുന്നു എന്റെ കറന്റ് വിതരണം മാറുകയാണെങ്കിൽ എന്റെ ഇംപെഡൻസിന് എന്ത് സംഭവിക്കും അത് മാറും ശരിയല്ലേ അതിനാൽ സ്വതന്ത്രമായ സ്ഥലത്ത് ഒരൊറ്റ ആന്റിനയ്ക്കായി നിങ്ങൾ കണക്കാക്കിയ ഇൻപുട്ട് ഇംപെഡൻസ് നിങ്ങൾ അതിൽ വളരെ സന്തുഷ്ടനായിരുന്നു വിവിധ വസ്തുക്കളുള്ള ഒരു വൈദ്യുതകാന്തിക പരിതസ്ഥിതിയിൽ നിങ്ങൾ അത് ഇടുന്നു നിങ്ങളുടെ പ്രകടനം അത്ര നല്ലതല്ലെന്ന് നിങ്ങൾ പെട്ടെന്ന് കണ്ടെത്തി അതിനാൽ അതിനുള്ള ഒരു പ്രധാന കാരണം ചുറ്റുമുള്ള പരിസ്ഥിതിയിൽ ആന്റിനയുടെ ഇൻപുട്ട് ഇംപെഡൻസ് മാറിയതിനാൽ പൊരുത്തപ്പെടുത്താവുന്ന അവസ്ഥക്ക് സാധുതയില്ല അപ്പോൾ നിങ്ങൾ ഇത് എങ്ങനെ കണക്കാക്കും അതിനാൽ ഏകദേശ രീതികളുടെ ഒരു വലിയ സിദ്ധാന്തം വീണ്ടും ഉണ്ട് എന്നാൽ വീണ്ടും CEM ൽ ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് ഇത് കണക്കാക്കുന്നതിനുള്ള കൃത്യമായ മാർഗ്ഗം നൽകുക എന്നതാണ് അതിൽ കൂടുതൽ ജോലിയുണ്ട് എന്നാൽ ഇത് മറ്റേ കേസിനേക്കാൾ കൂടുതൽ കൃത്യമാണ് അതിനാൽ നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് മറ്റൊരു ആന്റിന ഘടകം ഇവിടെ ചേർക്കുക എന്നതാണ് അതുകൊണ്ട് നമുക്ക് അവിടെ ഒരു ആന്റിന പ്രസരിക്കുന്നുണ്ടെന്ന് പറയാം അതിന്റെ സമീപത്ത് ഞാൻ ഒരു ആന്റിന കൂടി അവതരിപ്പിച്ചു അതിനാൽ മറ്റൊരു ആന്റിന ഇവിടെ വരുന്നു നമ്മൾ അതിനെ ആന്റിന B എന്ന് വിളിക്കും ഈ ആന്റിന സജീവമോ നിഷ്ക്രിയമോ ആകാം അപ്പോൾ എന്താണ് സജീവ ആന്റിന എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതായത് അതും പ്രസരിക്കുന്നു അതിനർത്ഥം ഇതിന് ഒരു ജനറേറ്ററും ഉണ്ട് നിഷ്ക്രിയ ആന്റിന സ്വീകരിക്കുന്ന മോഡിൽ അല്ലെങ്കിൽ ഈ യാഗി ഉഡ ആന്റിനകളിൽ ഒന്ന് പോലെ ആയിരിക്കാം ഒരു നയിക്കുന്ന ഘടകമുണ്ട് അതിന് പിന്നിൽ വിവിധ കമ്പികളുണ്ട് അവ അവിടെയുണ്ട് അതിനാൽ ഇത് ഒരു നിഷ്ക്രിയ ഘടകത്തിന്റെ ഒരു ഉദാഹരണമാണ് അതിനാൽ ഈ സാഹചര്യം ഇവിടെ പൊതുവായതാണ് അതിനാൽ പ്രത്യക്ഷമായി ഇത് എങ്ങനെ സംഭവിക്കും ഇത് ഒരു ഫീൽഡ് വികിരണം ചെയ്യുന്നു കറന്റ് അതിൽ ഉല്പാദിപ്പിച്ചിട്ടുണ്ട് തുടർന്ന് അത് മറ്റൊരു ഫീൽഡ് റേഡിയേറ്റ് ചെയ്യും അതിനാൽ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ രണ്ട് വഴികളുണ്ട് ഒരു വഴി ഏകദേശം ഞാൻ അർത്ഥമാക്കുന്നത് ഒരു സീരീസ് A B യിലേക്ക് എന്തെങ്കിലും അയയ്ക്കുന്നു B ആകർഷിക്കപ്പെടുന്നു B കിരണങ്ങളെ A യിലേക്ക് അയയ്ക്കുന്നു ഇത് A യിലെ കറന്റിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നു ഇത് എക്കാലവും തുടരില്ല ഇതിന് എന്തെങ്കിലും സ്ഥിരമായ പരിഹാരമുണ്ടാകും അതിനാൽ സ്ഥിരമായ അവസ്ഥയിൽ A യിൽ കുറച്ച് കറന്റും B കുറച്ച് കറന്റും ഉണ്ടാകും അപ്പോൾ ഈ ബൌണ്ടറി കണ്ടിഷൻ എങ്ങനെ പരിഷ്കരിക്കും അപ്പോൾ A യിലെ ഏത് സ്ഥലത്തും ഫീൽഡുകൾ എന്താണെന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ അതിനാൽ നിങ്ങൾക്ക് ഇതുണ്ടാവുo അത് എല്ലായിപ്പോഴും അവിടെയുണ്ട് അതാണ് വോൾട്ടേജ് ഉറവിടം ഉൽപ്പാദിപ്പിക്കുന്ന ഫീൽഡ് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് സ്വയം ഫീൽഡ് ഉണ്ട് അതിനാൽ ഇതുവരെ സിംഗിൾ ആന്റിന കേസിൽ എനിക്ക് ഉണ്ടായിരുന്നത് ഇതാണ് അതിനാൽ ഇപ്പോൾ ചിതറിക്കിടക്കുന്നതിന് ഒരു പ്ലസ് ഉണ്ടാകും അതിനാൽ ആന്റിന B ചിതറിക്കിടക്കുന്ന ഫീൽഡ് ആക്കി അതിനാൽ ഇത് ഒരൊറ്റ ആന്റിനയായിരുന്നു ഇത് രണ്ടും ആന്റിനകളാണ് അപ്പോൾ ഒരു സർക്യൂട്ട് മോഡലിന്റെ കാര്യത്തിൽ എനിക്ക് ഇത് എങ്ങനെ ചിന്തിക്കാനാകും അതിനാൽ യഥാർത്ഥത്തിൽ വളരെ ലളിതമായ രണ്ട് പോർട്ട് നെറ്റ്വർക്ക് ഇതിനെ വളരെ നന്നായി അവതരിപ്പിക്കുന്നു നമ്മളുടെ മുമ്പത്തെ സാഹചര്യത്തിൽ ഓർക്കുക എനിക്ക് ജനറേറ്ററും ഒരു ലോഡും അതിൽ ഉടനീളം ബന്ധിപ്പിച്ചിരുന്നു ഇപ്പോൾ സ്ഥിതി അല്പം മാറിയിട്ടുണ്ട് എനിക്ക് ഇതുപോലെ ഒന്ന് ഉണ്ട് അതിനാൽ ഇത് കൂടാതെ ഇത് ഇങ്ങോട്ട് പോയി കൂടാതെ ഇവിടെത്തന്നെ പ്രത്യക്ഷപ്പെടുക അതിനാൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയർമാർക്ക് ഇത് വളരെ സ്റ്റാൻഡേർഡ് ആണ് അതിനാൽ എനിക്ക് എഴുതാം അപ്പോൾ ഇവ കൂടാതെ എന്തൊക്കെയാണ് ഇവയെ സെൽഫ് ഇംപഡൻസ് എന്ന് വിളിക്കും അതിനാൽ മറ്റ് ആന്റിനകളുടെ അഭാവത്തിലുള്ള ഇംപെഡൻസുകളാണ് ഇവ ഒരൊറ്റ ആന്റിന ഉണ്ടായിരുന്നപ്പോൾ നമ്മൾക്ക് ഇതുവരെ ഉണ്ടായിരുന്നത് ഇതാണ് അതിനെ ശല്യപ്പെടുത്താൻ മറ്റൊന്നും ഇല്ല തുടർന്ന് കൂടാതെ ഇവയെ പരസ്പര തടസ്സങ്ങൾ എന്ന് വിളിക്കുന്നു ഒരു ആന്റിനയിൽ നിന്നുള്ള ഒരു സർക്യൂട്ടോ അല്ലെങ്കിൽ സർക്യൂട്ട് ഡിസൈനർമാരുടെ വീക്ഷണകോണിൽ നിന്നോ ഉള്ള ഒരു ഇംപെഡൻസ് എന്താണ് അത് അവൻ അല്ലെങ്കിൽ അവൾ പൊരുത്തപ്പെടുത്തേണ്ടതുണ്ട് ഇത് ആണോ അല്ലെങ്കിൽഎന്താണ് ഇത് Z 1 1 അല്ല Z 1 2 ഉo അല്ല ശരിയാണ് അതിനാൽ അത് പോർട്ട് 1 ൽ ആണ് അതാണ് ഇംപെഡൻസ് അതിനാൽ അത് സംഭവിക്കാൻ പോകുന്നു എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്നും അത് തുല്യമായിരിക്കുമെന്നും ഞാൻ നിങ്ങളോട് പറയും ഇതിനെ ഡ്രൈവിംഗ് പോയിന്റ് ഇംപെഡൻസ് എന്ന് വിളിക്കുന്നു അതിനാൽ ഡ്രൈവിംഗ് പോയിന്റ് ഇംപെഡൻസ് കൂടാതെ ഇത് അറിയുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും കൂടാതെ ഈ വൈദ്യുതധാരകൾ എന്താണെന്ന് എനിക്ക് അറിയേണ്ടതുണ്ട് അപ്പോൾ മാത്രമേ ശരിയായി രൂപകൽപ്പന ചെയ്യാൻ പൊരുത്തപ്പെടുന്ന നെറ്റ്വർക്ക് എന്താണെന്ന് എനിക്ക് കണ്ടെത്താൻ കഴിയൂ അതിനാൽ വീണ്ടും ഇത് നമ്മൾ എങ്ങനെ കണക്കാക്കും അതിനാൽ വീണ്ടും ഇത് ഇൻഡുസ്ഡ് EMF രീതി എന്നും കൂടാതെ മറ്റ് വിവിധ രീതികൾ എന്നും വിളിക്കപ്പെടുന്ന രീതിയായിരുന്നു അവ ഏകദേശം കണക്കാക്കാൻ ഉപയോഗിക്കുന്നു എനിക്ക് കറന്റിന്റെ വിതരണത്തിന്റെ ഒരു ഏകദേശ കണക്ക് കിട്ടുകയാണെങ്കിൽ അപ്പോൾ എനിക്ക് ഡ്രൈവിംഗ് പോയിന്റ് ഇമ്പേഡെൻസ് കണക്കാക്കാം കൂടാതെ അതെല്ലാം കൂടാതെ വളരെ സവിശേഷമായ സന്ദർഭങ്ങളിൽ ഇത് പ്രവർത്തിക്കുന്നു നിങ്ങൾക്കറിയാം സമാന്തര കണ്ടക്ടറുകൾ Z ഡയറക്ട് ചെയ്തതും മറ്റും മാത്രമേ അറിയൂ എന്നാൽ നിങ്ങൾക്ക് പൊതുവായ ചില കോൺഫിഗറേഷൻ ഉണ്ടെങ്കിൽ അത് കൃത്യമല്ല അതിനാൽ ഇവ കൃത്യമായി കണക്കാക്കാൻ CEM വീണ്ടും നമ്മളെ അനുവദിക്കുന്നു അപ്പോൾ സജ്ജീകരണം വ്യക്തമാണോ എനിക്ക് പരസ്പരം രണ്ട് ആന്റിനകൾ ഉള്ളപ്പോൾ പകുതിയോളം നിങ്ങൾക്ക് പരസ്പരം കുറച്ച് കറന്റ് കുറച്ച് കറന്റ് ഉണ്ടെന്ന് അറിയാം അവയ്ക്ക് ഒന്നിലധികം പ്രതിഫലനങ്ങളെ പ്രതിഫലിപ്പിച്ചതിന് ശേഷം ഇവ സ്ഥിരമായ വൈദ്യുതധാരകളാണ് നമ്മളുടെ ലക്ഷ്യം സാന്നിധ്യത്തിൽ മറ്റേ ആന്റിനയുടെ സാന്നിധ്യത്തിൽ ഞാൻ അർത്ഥമാക്കുന്നത് എന്താണെന്ന് എന്നോട് പറയൂ എന്താണെന്ന് എന്നോട് പറയൂ അതിനാൽ നമുക്ക് തുടരാം അതിനാൽ നമ്മൾ നൽകിയിരിക്കുന്ന ബൌണ്ടറി കണ്ടിഷൻസ് വെച്ച് ഈ ആന്റിന ഇവിടെ വീണ്ടും വരയ്ക്കാം അതിനാൽ ഇത് ആന്റിന A ആണ് ലാളിത്യത്തിനായി ഞാൻ ചെയ്യാൻ പോകുന്നത് ആന്റിന B ആണ് ഞാൻ ഇത് നിഷ്ക്രിയമാക്കാൻ പോകുന്നു പക്ഷേ എനിക്ക് അതിൽ ഒരു ജനറേറ്റർ എളുപ്പത്തിൽ ചേർക്കാനാകും അതിനാൽ ഇത് എന്റെ ആന്റിന B ആണ് ഇവിടെയുണ്ട് ഇവിടെയുണ്ട് കുറച്ച് ദൂരം d അകലെ ഇപ്പോൾ മ്യൂച്വൽ കപ്ലിംഗിലേക്കുള്ള CEM ന്റെ ആദ്യ അവതരണം ഇതാണ് എന്നതിനാൽ എനിക്ക് ആവശ്യമില്ലാത്ത ചില ലളിതവൽക്കരണ അനുമാനങ്ങൾ നടത്തേണ്ടതുണ്ട് പക്ഷേ ഇത് ഡെറിവേഷൻ ലളിതമാക്കാൻ വേണ്ടി മാത്രമാണ് അതിനാൽ ഞാൻ നടത്തുന്ന അനുമാനങ്ങൾ രണ്ടും z സംവിധാനം ചെയ്തതാണ് അതിനാൽ രണ്ട് വൈദ്യുതധാരകളും z ഡയറക്ടഡ് ആണ് കൂടാതെ ആരം തരംഗദൈർഘ്യത്തേക്കാൾ വളരെ ചെറുതാണ് അതിനാൽ ഇത് ഗണിതത്തെ കുറച്ചുകൂടി എളുപ്പമാക്കാൻ അനുവദിക്കുന്നു നമ്മൾക്ക് പ്രശ്നമില്ല അതിനാൽ ഒരൊറ്റ ആന്റിന ഉപയോഗിച്ച് ഞങ്ങൾ സിംഗിൾ ആന്റിന കേസുമായി താരതമ്യപ്പെടുത്തുകയും രണ്ട് ആന്റിനകളുടെ സിദ്ധാന്തം സിംഗിൾ ആന്റിന ഉപയോഗിച്ച് നമ്മുടെ ബൌണ്ടറി കണ്ടിഷൻ എന്നത് ആയിരുന്നു അതിനാൽ A ഘടകത്തിന്റെ ഇൻസിഡന്റ് ഫീൽഡാണ് യ്ക് വേണ്ടി ഇപ്പോൾ നമ്മൾ രണ്ട് ആന്റിനകൾക്കായി പോകുന്നു എനിക്ക് ബൌണ്ടറി കണ്ടിഷനുകൾ കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ വളരെ ലളിതമായി അവിടെ ഉണ്ടാകും അതിനാൽ നമുക്ക് രണ്ട് കേസുകൾ കൂടാതെ അതിനാൽ ആദ്യത്തെ കേസ് ഞാൻ എന്ത് എഴുതും ഇതാണ് സെൽഫ് ഫീൽഡ് B അളന്നതിനാൽ ചില ഫീൽഡ് ചിതറിക്കിടക്കുന്ന ഫീൽഡ് A ഇത് 0 യ്ക്ക് തുല്യമായിരിക്കണം ശരിയല്ലേ യ്ക് വേണ്ടി രണ്ടാമത്തെ ബൌണ്ടറി കണ്ടിഷൻ ആദ്യ ടേം എന്തായിരിക്കും അതിനാൽ A യിൽനിന്നും ഉണ്ടാകാൻ പോകുന്നു അതിനാൽ നമുക്ക് ഇത് ഈ രീതിയിൽ എഴുതാം ഈ ഒരു ഫീൽഡ് A യിലെ കറന്റ് കാരണം ഉൽപാദിപ്പിക്കുന്ന ഫീൽഡാണ് അത് വേറൊരു ഫീൽഡ് ഉല്പാദിപ്പിക്കുന്നു കൂടാതെ ആ ഫീൽഡ് B യിലും കൂടാതെ യിലും പതിക്കുന്നു ഇത് r നു വേണ്ടി 0 ത്തിന് തുല്യമായിരിക്കും B യുടെ ഭാഗവുമാണ് യ്ക് വേണ്ടി അതിനാൽ B ക്ക് ഉറവിടമില്ലെന്ന് നമ്മൾ അനുമാനിച്ചു അതിന് ഒരു ഉറവിടമുണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യൽ വളരെ ലളിതമാണ് ഈ രണ്ട് അവസ്ഥകൾക്കും ഒരു പേരുണ്ട് അവയെ നൾ ബൌണ്ടറി വ്യവസ്ഥകൾ എന്ന് വിളിക്കുന്നു അതിനാൽ സിംഗിൾ ആന്റിന പ്രശ്നം എങ്ങനെ പരിഹരിച്ചുവെന്ന് നമുക്ക് നമ്മെ സ്വയം ഓർമ്മിപ്പിക്കാം വിദ്യാർത്ഥി സാർ വിദ്യാർത്ഥി എന്തിനാണ് ഇൻസിഡന്റ് ഫീൽഡിലേക്ക് വരുന്നത് ഇല്ല ഞാൻ വെറുതെ ഊഹിക്കുന്നു അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ടേo കൂടി ഉണ്ടാകും നമ്മൾ അത് കൂട്ടി ചേർക്കും അതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല നമുക്ക് ഇവിടെ ഈ ടേo പോലെ ചേർക്കാം സമാനമായ ഒരു ടേo ഇതിന്റെ ഇടതുവശത്ത് ചേർക്കും വിദ്യാർത്ഥി എന്നാൽ അത് ഇതിലുണ്ട് അതിനാൽ എനിക്ക് A യിൽ കുറച്ച് വോൾട്ടേജ് ഉറവിടമുണ്ട് അത് ഒരു ഫീൽഡ് സൃഷ്ടിക്കുന്നു അതാണ് ആദ്യത്തെ ടേം രണ്ടാമത്തെ ടേം എന്നത് ആന്റിനയിൽ തന്നെ ഒഴുകുന്ന കറന്റ് മൂലമുള്ള ഫീൽഡും രണ്ടാമത്തെ ടേം ആന്റിന B യിലെ കറന്റ് മൂലമുള്ള ഫീൽഡുമാണ് ഇപ്പോൾ ആന്റിന A യിലെ ഏത് പോയിന്റിനും ഇത് ശരിയാണ് ഞാൻ ആന്റിന B യിലേക്ക് നീങ്ങുമ്പോൾ അതേ ലോജിക് നിലനിർത്തുന്നു അതിനാൽ ആന്റിന B യിൽ ഉറവിടം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉറവിട ടേം ചേർക്കണം അത് വ്യക്തമാണോ അതിനാൽ ഞാൻ ഇത് ഇവിടെ എഴുതട്ടെ ഇത് LHS നോട് ചേർക്കുക അതിനാൽ ആശയക്കുഴപ്പം ഇല്ല എന്നത് ശരിയാണ് അതിനാൽ ഒറ്റ ആന്റിന എങ്ങനെ പരിഹരിച്ചുവെന്ന് നമുക്ക് സ്വയം ഓർമ്മിപ്പിക്കാം അത് പോക്ക്ലിംഗ്ടണിന്റെ അവിഭാജ്യ സമവാക്യമായിരുന്നു Pocklington's integral equation പോക്ക്ലിംഗ്ടണിന്റെ അവിഭാജ്യ സമവാക്യംPocklington's integral equation ഞാൻ അത് ഇവിടെ എഴുതട്ടെ ഇത് നമ്മളുടെ വളരെ ലളിതമായ കാര്യമായിരുന്നു ഇപ്പോൾ ഇവിടെ ഈ കഥാപാത്രം പലതവണ പ്രത്യക്ഷപ്പെടാൻ പോകുന്നു അതിനാൽ ഞാൻ അതിനായി ഒരു ചെറിയ ചിഹ്നം ഉണ്ടാക്കാൻ പോകുന്നു അതിനാൽ ഈ ടേo ഇവിടെയുണ്ട് ഞാൻ ഇതിനെ ഈ ടേമിന്റെ ചുരുക്കെഴുത്ത് ചിഹ്നം എന്ന് വിളിക്കാൻ പോകുന്നു അതിനാൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ അത് ഇവിടെ എഴുതണം അതിനാൽ ഇത് ഇങ്ങനെ മാറും ഒരേ സമവാക്യങ്ങൾ എഴുതാനുള്ള നമ്മളുടെ കൂടുതൽ ഒതുക്കമുള്ള മാർഗം കൂടാതെ ഇവിടെ എനിക്ക് എന്ത് തരത്തിലുള്ള നിബന്ധനകൾ ഉണ്ടായിരുന്നു അത് ഇങ്ങനെയായിരുന്നു എവിടെ അതിനാൽ ഇത് ഒരു ഫങ്ക്ഷൻ ആണ് ഇപ്പോൾ നമ്മൾ രണ്ട് ഘടകങ്ങളുടെ സമഗ്ര സമവാക്യങ്ങളുടെ കാര്യത്തിലേക്ക് പോകുന്നു